പ്രഭാഷണം 01 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ എൻപിടിഇഎൽ ഓൺലൈൻ രജിസ്ട്രേഷൻ കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ ഖരഗ്പൂർ ഐ ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള രാജരാം ലക്കരാജു ആണ് ഈ കോഴ്സിൽ ഒരു ഡ്രോയിംഗ് കാണുന്നതിനും കലാപരമായ ഡ്രോയിംഗുമായി താരതമ്യപ്പെടുത്തുന്നതിനുമുള്ള സാങ്കേതിക മാർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും ഒന്നാം പ്രഭാഷണത്തിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നു എഞ്ചിനീയർമാർക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ആശയങ്ങൾ എന്തുതന്നെയായാലും നമ്മൾ അത് ഡ്രോയിംഗുകളിലൂടെയും സ്കെച്ചുകളിലൂടെയും പ്രകടിപ്പിക്കുന്നു രൂപകൽപ്പന പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് എന്നിവ ഉൾക്കൊള്ളുന്ന നിരവധി എഞ്ചിനീയറിംഗ് വശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നമ്മൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ ഗ്യാസ് ടർബൈൻ ബ്ലേഡുകളും വിമാനത്തിന്റെ ചിറകുകളും ഉണ്ടാകും ഇവ വൻതോതിൽ ഉത്പാദിപ്പിക്കണം അതിനായി പ്രോസസ്സ് ആവർത്തനങ്ങൾക്കായി നമുക്ക് സാങ്കേതിക ഡ്രോയിംഗുകൾ ആവശ്യമാണ് കൂടാതെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് പ്രൊഡക്ഷൻ ലൈനുകളിൽ എത്തിക്കുന്ന ഡ്രോയിംഗുകളുടെ ശരിയായ നിർമ്മാണം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അതുപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രക്രിയകളിൽ ധാരാളം താപ മാസ് ട്രാൻസ്ഫർ ഉപകരണങ്ങൾ ഉണ്ടാകും അവ ശരിയായി പുനർനിർമ്മിക്കേണ്ടതുണ്ട് എല്ലാ രൂപകൽപ്പനയ്ക്കും എല്ലായ്പ്പോഴും ടോളറൻസ് ഉണ്ട് എന്നാൽ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിലൂടെ അത് കുറയ്ക്കാൻ കഴിയും അതുപോലെ സിവിൽ വാസ്തുവിദ്യാ എഞ്ചിനീയർമാർക്ക് കെട്ടിടത്തിന്റെ പാറ്റേണുകൾ നിർമ്മിക്കുന്നത് ഒരു പ്രധാന ഘടകമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് അത്തരം ഡ്രോയിംഗുകൾ നേടാൻ സഹായിക്കുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എന്നിവയ്ക്ക് പോലും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് അത്യാവശ്യമാണ് നിരവധി ചിപ്സ് റെസിസ്റ്ററുകൾ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ വ്യവസായങ്ങളിൽ ശരിയായി നിർമ്മിക്കേണ്ടതുണ്ട് അവ സ്കെച്ചുകൾ വരയ്ക്കുന്നതിനും ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്നതിനും ശ്രദ്ധ ആവശ്യമാണ് നമ്മുടെ കോഴ്സ് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ഈ കല പഠിക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം സാങ്കേതിക എഞ്ചിനീയർമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ കോഴ്സിൽ വരകൾ വളവുകൾ വിവിധ മെക്കാനിക്കൽ ഭാഗങ്ങൾ എന്നിവ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ പഠിക്കും ഓർത്തോഗ്രാഫിക് പോയിന്റുകൾ ലൈനുകൾ പ്ലെയിനുകൾ പ്രൊജക്ഷനുകൾ പ്രിൻസിപ്പൽ ഓക്സിലിയേരി വ്യൂവുകൾ ഒരു നിശ്ചിത ദിശയിലുള്ള കാഴ്ചകൾ ഭാഗീയ കാഴ്ചകൾ വരികളുടെ വിഭജനം സോളിഡുകൾ എന്നിവയും നോക്കാൻ നമ്മൾ ശ്രമിക്കും ഉപരിതലങ്ങളുടെ വികസനം അളവുകൾ എങ്ങനെ നൽകാം ഫിറ്റുകളെയും ടോളറൻസ്കളെയും എങ്ങനെ പ്രതിനിധീകരിക്കാം എന്നും നമ്മൾ പഠിക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വരയ്ക്കാൻ കമ്പ്യൂട്ടറുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതും നമ്മൾ പരിശോധിക്കും അസംബ്ലി ഡിസൈൻ പ്രാക്ടീസ് എന്നിവയുടെ കാര്യത്തിലും നമ്മൾ ഒരു ചെറിയ പ്രാഥമിക ഹാൻഡ് ഓൺ കവർ ചെയ്യും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ സാങ്കേതിക ഡ്രോയിംഗിന്റെ സാങ്കേതികതകളും സ്റ്റാൻഡേർഡ് പരിശീലനവും പഠിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു പ്രഭാഷണത്തിന്റെ അവസാനം ഒരാൾക്ക് ഒരു വർക്കിംഗ് അസംബ്ലി ഡ്രോയിംഗ് വായിക്കാനും മൾട്ടിവ്യൂ ഓർത്തോഗ്രാഫിക് ഡ്രോയിംഗുകളിൽ മെക്കാനിക്കൽ ഘടകങ്ങളെ പ്രതിനിധീകരിക്കാനും ആശയപരമായ ഡിസൈൻ സ്കെച്ചുകൾ സൃഷ്ടിക്കാനും അസംബ്ലി ഡ്രോയിംഗുകൾ സൃഷ്ടിക്കാനും കഴിയും സാങ്കേതിക ഡ്രോയിംഗ് കഴിവുകൾ പഠിക്കുകയും ഡ്രോയിംഗുകളെ പ്രതിനിധീകരിക്കുന്നതിന് സോളിഡ്വർക്സ് സോഫ്റ്റ്വെയർ പോലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിക്കുകയുമാണ് നമ്മുടെ ദൌത്യം ഈ കോഴ്സിൽ നമ്മൾ 12 മൊഡ്യൂളുകൾ ഉൾക്കൊള്ളുന്നു ഒന്ന് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളുടെ ആമുഖം കോണിക് വിഭാഗങ്ങൾ എങ്ങനെ മനസിലാക്കാമെന്നും അവയെ പ്രതിനിധീകരിക്കാമെന്ന് രണ്ട് മൊഡ്യൂളുകൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളെ കുറിച്ച് രണ്ട് മൊഡ്യൂളുകൾ അതിൽ സെക്ഷൻസും സെക്ഷനൽ വ്യൂവും ഒരു പ്രത്യേക മൊഡ്യൂളായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കൂടാതെ ഐസോമെട്രിക് പ്രൊജക്ഷനുകളെ എങ്ങനെ പ്രതിനിധീകരിക്കാം കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനത്തെക്കുറിച്ചുള്ള നാല് മൊഡ്യൂളുകൾ അതായത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനെക്കുറിച്ച് അറിയുന്നതും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവ വരയ്ക്കുന്നതും കൂടാതെ ഒരു നിർദ്ദിഷ്ട പ്രശ്നം തിരഞ്ഞെടുത്ത് ഡിസൈൻ പ്രോജക്റ്റ് ചെയ്യുന്നതിനുള്ള രണ്ട് മൊഡ്യൂളുകൾ നമ്മൾ പിന്തുടരുന്ന പാഠപുസ്തകങ്ങൾ എൻ Bhatt മറ്റും എഴുതിയ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗാണ് കുൽക്കർണിയും D Kulkarni മറ്റും എഴുതിയ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് വിത്ത് ഓട്ടോകാഡ് സിആർസി പ്രസ്സിന്റെ ഒൻവോബ്ലു എഴുതിയ ഇൻട്രൊഡക്ഷൻ ടു സോളിഡ്വർക്സ് എന്നിവയും പിന്തുടരും അതിലുപരിയായി ഇത് വിപുലമായ രീതിയിൽ കവർ ചെയ്യുന്നതിന് നമ്മൾ നിരവധി ഓൺലൈൻ ഉറവിടങ്ങൾ ഉപയോഗിക്കും ഈ റഫറൻസുകളും മെറ്റീരിയലുകളും ഞങ്ങൾ എവിടെയൊക്കെ ഉപയോഗിച്ചാലും നാം അത് ഉചിതമായി അക്നോഡല്ഡ്ജ് ചെയ്യുന്നതായിരിക്കും എഞ്ചിനീയറിംഗ് രീതികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് ഉപയോഗിച്ച് വരുകയാണ് അതിനാൽ ഞങ്ങൾ ഈ ഉറവിടങ്ങളെ ഉചിതമായി അംഗീകരിക്കും കൂടാതെ കൃതഞ്ജതയുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ആദ്യ മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളുടെ ആമുഖം ഉൾക്കൊള്ളുന്നു അതിൽ ഡ്രോയിംഗ് ഉപകരണങ്ങൾ അക്ഷരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിനായി ഏത് തരത്തിലുള്ള പേപ്പറുകൾ ലേയൌട്ടുകൾ ആണ് വേണ്ടത് ജ്യാമിതീയ വളവുകളുടെ അളവുകൾ ടോളറൻസുകൾ എന്നിവ എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ പഠിക്കും ഒരു കലാപരമായ രീതിയിൽ നമ്മൾ സ്കെച്ചുകൾ വരയ്ക്കുന്നു ഉദാഹരണത്തിന് ഒരു കലാകാരൻ വരച്ച റോക്കറ്റ് ആ റോക്കറ്റിൽ നിന്ന് എക്സോസ്റ്റ് ഗ്യാസ് പുറപ്പെടുവിക്കുമെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നു അതിനാൽ ന്യൂട്ടന്റെ മൂന്നാമത്തെ നിയമം കാരണം റോക്കറ്റ് മുകളിലേക്ക് പറക്കുന്നു ഇവിടെ റോക്കറ്റ് രൂപം ഏകപക്ഷീയമാണ് ഇത് കാര്യക്ഷമമായ രൂപകൽപ്പനയാണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ലായിരിക്കാം എയറോഡൈനാമിക്കൽ മോഡലുകൾ സ്ഥിരത ഘടനാപരമായ കരുത്ത് നിരവധി പ്രാതിനിധ്യങ്ങൾ എന്നിവ കണക്കിലെടുത്ത് കാര്യക്ഷമമായ ഡിസൈനുകൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിൽ ഉൾപ്പെടുന്നു എന്തും രൂപകൽപ്പന ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ന്യൂട്ടൺ മെക്കാനിക്സ് പോലുള്ള തത്ത്വങ്ങൾ ഉപയോഗിക്കുന്നു അവിടെ നിന്ന് നമ്മൾ മർദ്ദങ്ങളുടെയും ശക്തികളെയും തടയാൻ കഴിയുന്ന ഒബ്ജക്റ്റ് വലുപ്പത്തെയും ക്രോസ് സെക്ഷണൽ ഏരിയകളെയും പ്രതിനിധീകരിക്കുന്നു അവിടെ നിന്ന് റിയലിസ്റ്റിക് പ്രാതിനിധ്യം വരയ്ക്കാൻ ശ്രമിക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഇതിനെ ഉൽപാദന ലൈനുകൾക്ക് സമർപ്പിക്കുന്നു കൂടാതെ നിർമ്മാണ ഉൽപാദന ലൈനുകൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു എഞ്ചിനീയറിംഗ് രൂപകൽപ്പനയ്ക്ക് ആവർത്തനം വളരെ ആവശ്യമാണ് ഉദാഹരണത്തിന് റോക്കറ്റിനെ കാണുന്ന എഞ്ചിനീയറിംഗ് രീതി ഡ്രോയിംഗിനെ പ്രതിനിധീകരിക്കുന്ന കലാപരമായ രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഒരു ലളിതമായ റോക്കറ്റിൽ നിരവധി ഭാഗങ്ങളുണ്ട് ഈ റോക്കറ്റ് രൂപകൽപ്പന ചെയ്യുന്നതിന് ഇവിടെ ഹബ് റീ എൻട്രി ആകാരം ഒരുപക്ഷേ ചിറക് സംയോജിത ഘടകങ്ങളും നിരവധി ഘടകങ്ങളും ഉൾപ്പെടും ഈ റോക്കറ്റിന്റെ സെക്ഷനൽ വ്യൂ യും പ്രധാനമാണ് അവയിൽ ചിലതിന് ത്രസ്റ്ററുകളുണ്ട് അവയിൽ ചിലതിന് ബോഡി സപ്പോർട്ടുകളുണ്ട് അവയിൽ ചിലതിന് കോറുകളുമുണ്ട് അവയിൽ ചിലതിന് കോണാകൃതിയിലുള്ള ആകൃതികളുമുണ്ട് കട്ട് സെക്ഷനിൽ പോലും നിരവധി എഞ്ചിനീയറിംഗ് ഉപകരണങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു റോക്കറ്റ് പുനർനിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവയെല്ലാം പ്രതിനിധീകരിക്കുകയും പുനർനിർമ്മിക്കുകയും വേണം അതിനാൽ കലാപരമായ മാർഗം എല്ലായ്പ്പോഴും മനോഹരവും ലളിതവുമാണ് എഞ്ചിനീയറിംഗ് വഴി വളരെ സങ്കീർണ്ണമായ ഡ്രോയിംഗുകളാണ് ഓരോ ഘടകങ്ങളും കൃത്യമായി എന്താണ് ചെയ്യുന്നതെന്നും നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് അതിന്റെ അളവുകൾ എന്താണെന്നും ആ കട്ട് സെക്ഷണൽ എങ്ങനെ കാണപ്പെടുന്നുവെന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവിടെ ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് മാർഗത്തിനായി അളവുകൾ പ്രതിനിധീകരിക്കുന്ന നിംബസ് പോലുള്ള ചില വരികളുള്ള അമ്പടയാളങ്ങളുണ്ട് അവയിൽ ചിലത് ശീർഷകങ്ങൾ ഘടകങ്ങൾ ഭാഗീയ കാഴ്ചകൾ ആരാണ് ഇത് ചെയ്തത് അതിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ ഉൾപ്പെടുന്നു നമ്മുടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കാര്യങ്ങൾ വരയ്ക്കുന്നതിനും ഡ്രോയിംഗുകളെ പ്രതിനിധീകരിക്കുന്നതിനുമുള്ള ഈ അടിസ്ഥാന പദ്ധതിയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് മൊത്തത്തിൽ നോക്കുക ആണെങ്കിൽ ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഗ്രാഫിക്കൽ ഫോർമാറ്റിൽ ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാന ആശയത്തിന്റെ ആവിഷ്കാരത്തെ ഉൾക്കൊള്ളുന്നു ഇത് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് എന്നറിയപ്പെടുന്നു നിലവിലെ കോഴ്സ് സാങ്കേതിക ഡ്രോയിംഗ് കഴിവുകളിലും കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും ഉൾപ്പെടുന്ന അടിസ്ഥാന ആശയങ്ങൾ പഠിക്കാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ഒരു ബഹിരാകാശ നിലയം തിരഞ്ഞെടുക്കാം ഭൂമിയിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ബഹിരാകാശ നിലയത്തിന്റെ യഥാർത്ഥ ചിത്രമാണിത് സോളാർ പാനലുകൾ ത്രസ്റ്ററുകൾ മറ്റ് പലതും ഇതിൽ അടങ്ങിയിരിക്കുന്നു നാം അതിനെ അമൂർത്തമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അത് പല ഭാഗങ്ങളുടെയും ഒരു സമ്മേളനമാണ് ഉദാഹരണത്തിന് സ്കൈലാബ് 1950 1960 കളിലെ പ്രശസ്ത ബഹിരാകാശ നിലയത്തിൽ ധാരാളം സോളാർ പാനലുകൾ ഗൈറോസ്കോപ്പുകൾ ഉപകരണങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് അതിൽ മൈക്രോമീറ്ററോയിഡ് ഷീൽഡുകൾ micrometeoroid shields സ്ലീപ്പ് കമ്പാർട്ടുമെന്റുകൾ വാർഡ്റൂമുകൾ മാലിന്യ കമ്പാർട്ടുമെന്റുകൾ എയർലോക്ക് മൊഡ്യൂളുകൾ ഒന്നിലധികം അഡാപ്റ്ററുകൾ കമാൻഡ് ആൻഡ് സർവീസ് മൊഡ്യൂളുകൾ ടെലിസ്കോപ്പ് യൂണിറ്റുകൾ വർക്ക്ഷോപ്പ് യൂണിറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കാം അതിനാൽ ഓരോ ഘടകങ്ങളും ശ്രദ്ധാപൂർവ്വം വരയ്ക്കണം അത് ചില രൂപകൽപ്പന രീതികൾ പിന്തുടരുന്നു ഇത് നിർമ്മാണ യൂണിറ്റിനോ നിർമ്മാണ തൊഴിലാളികൾക്കോ നൽകുന്നു അളവുകളുള്ള ആ സാങ്കേതിക ഡ്രോയിംഗിനെ അടിസ്ഥാനമാക്കി ഓരോ ഘടകങ്ങളും നിർമ്മിക്കാൻ ഒരാൾക്ക് കഴിയും ഏത് ഘടകമാണ് ഒന്നിലേക്ക് ചേർക്കേണ്ടതെന്ന് അവർക്കറിയാം സാധാരണയായി ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിൽ ധാരാളം വ്യക്തിഗത ഘടകങ്ങൾ അടങ്ങിയിരിക്കാം ഉദാഹരണത്തിന് ഈ സ്കൈലാബിനായി ബഹിരാകാശ നിലയത്തിൽ ഏകദേശം 10 ലക്ഷം ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഏത് ഘടകമാണ് എവിടെ കൂട്ടിച്ചേർക്കേണ്ടതെന്ന് ഓർമിക്കുന്നത് ഏതൊരു മനുഷ്യനും എളുപ്പമല്ല ഈ ഘടകങ്ങൾ ഒരു വ്യക്തിയോ ഒരു യൂണിറ്റോ നിർമ്മിച്ചതല്ല ഈ ഡ്രോയിംഗുകൾ വിവിധ ഉൽപാദന യൂണിറ്റുകളിലേക്ക് വിതരണം ചെയ്യുന്നു കൂടാതെ വ്യക്തിഗത ഘടകങ്ങൾ നിർമ്മിക്കും അതിനാൽ ഈ വ്യവസായങ്ങൾക്കിടയിൽ സമന്വയ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കുകയും എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകളിലൂടെ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ ഇടത് വശത്ത് ഈ വ്യക്തിഗത ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന അത്തരം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് നമ്മൾ കാണിക്കുന്നു ഇതിന് പ്രത്യേകമായി ത്രസ്റ്ററുകളുള്ള നിരവധി സബ് ഡ്രോയിംഗ് ഷീറ്റുകൾ ഉണ്ടാകും പ്രത്യേകമായി ഗൈറോസ്കോപ്പ് കമ്പാർട്ട്മെന്റൽ സ്പേസ് നട്ട് ബോൾട്ട് എന്നിവപോലും ഈ വ്യവസായങ്ങൾക്ക് പ്രത്യേകം വിതരണം ചെയ്യും ആ ഡ്രോയിംഗുകളെ അടിസ്ഥാനമാക്കി അവ പാറ്റേൺ ആവർത്തിക്കുകയും കോൺഫിഗറേഷനുകൾ പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നമ്മൾ ഒരു വിൻഡ് ഫാം എടുക്കുകയാണെങ്കിൽ അതിൽ വിൻഡ് ടർബൈൻ ബ്ലേഡുകളും ഒരു വമ്പൻ പോസ്റ്റും അടങ്ങിയിരിക്കുന്നു അത് ഏകദേശം 50 മീറ്റർ ഉയരവും വിൻഡ് ടർബൈൻ ബ്ലേഡുകൾക്കു 20 മീറ്റർ വ്യാസവും കാണും ഒരു കാറ്റാടി ഫാമിൽ നിരവധി കാറ്റാടി ടർബൈനുകളും അടങ്ങിയിരിക്കുന്നു ഒരു ഡ്രോയിംഗ് ഷീറ്റ് ഇല്ലെങ്കിൽ ഈ വിൻഡ് ടർബൈൻ ബ്ലേഡുകൾ വ്യക്തമായി സൂചിപ്പിച്ച പോസ്റ്റ് അളവുകൾ ടോളറൻസുകൾ ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എന്നിവയ്ക്കായി ഓരോ വിൻഡ് ടർബൈനുകളും വീണ്ടും പ്രതിനിധീകരിക്കുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള പാറ്റേണുകൾ പുനർനിർമ്മിക്കുന്നത് ഏതെങ്കിലും നിർമ്മാണ യൂണിറ്റിന് എളുപ്പമല്ലായിരിക്കാം ടർബൈനിനുള്ളിൽ പോലും വളരെ സങ്കീർണ്ണമായ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒരു ജനറേറ്റർ വിൻഡ് വെയ്നുകൾ ലോ സ്പീഡ് ഷാഫ്റ്റുകൾ നാസെൽ ടവറുകൾ യാവ് മെക്കാനിസം yaw mechanism ഗിയർബോക്സ് കൂടാതെ നിരവധി യൂണിറ്റുകൾ കാണും ഓരോ യൂണിറ്റും ശരിയായി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കോഴ്സ് ഈ അസംബ്ലി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ആവശ്യമായ ഡ്രോയിംഗുകളെ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്നും പഠിപ്പിക്കുന്നു ഈ കോഴ്സിന്റെ അവസാനത്തോടെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ അളവുകൾ ടോളറൻസുകൾ ബോക്സുകൾ സെക്ഷനൽ വ്യൂ എന്നിവ മനസിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മെക്കാനിക്കൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിന് മാത്രമല്ല സിവിൽ എഞ്ചിനീയറിംഗിനും കൺസ്ട്രക്ഷൻ ഡ്രോയിംഗിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇവിടെ ഇടതുവശത്ത് മുംബൈയിൽ നിന്നുള്ള ബാന്ദ്ര വർലി കടൽ ലിങ്ക് പോലുള്ള ലളിതമായ ഒരു ഉദാഹരണം കാണിച്ചിരിക്കുന്നു അതിൽ വളരെ നീളമുള്ള പാലം അടങ്ങിയിരിക്കുന്നു കൂടാതെ നിരവധി ബീമുകളും നിരകളും ഉണ്ട് ബാന്ദ്രയും വോർലിയും തമ്മിലുള്ള ദൂരം വലതുവശത്തെ പ്ലോട്ടിലും പരാമർശിക്കപ്പെടുന്നു ഏകദേശം 4 7 കിലോമീറ്ററാണ് ഈ സസ്പെൻഷനുകൾ എവിടെ സൃഷ്ടിക്കണം എവിടെ പൈലോൺ സൃഷ്ടിക്കണം ഈ പാലം എങ്ങനെ നിർമ്മിക്കണം എന്നിങ്ങനെയുള്ള എല്ലാം സ്കീമാറ്റിക് രീതിയിലാണ് പ്രതിനിധീകരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ഒരു ഭാഗമാണിത് കൂടുതൽ ആന്തരിക വിശദാംശങ്ങൾ നടുവിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും സങ്കീർണ്ണമായ കാര്യം അതിൽ പിണ്ഡം പോസ് അളവുകൾ പില്ലർ മുതൽ പില്ലർ ലൊക്കേഷനുകൾ വരെ നിരവധി കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ കോഴ്സിൽ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിംഗുകൾ മനസിലാക്കുന്നതിനും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവ രൂപകൽപ്പന ചെയ്യുന്നതിനും 3D വസ്തുക്കൾ വികസിപ്പിക്കുന്നതിനും സാങ്കേതിക ഡ്രോയിംഗുകളുടെ വിഷ്വൽ വശങ്ങൾ നേടുന്നതിനും വിദ്യാർത്ഥി കഴിവുകൾ വികസിപ്പിക്കും ഇവയാണ് നമ്മുടെ കോഴ്സിന്റെ ലക്ഷ്യങ്ങൾ